നമുക്ക് തുടരാം അവസാന വീഡിയോയിൽ നമ്മൾ റിങ്ങുകളുടെ വിവിധ ഉദാഹരണങ്ങൾ പരിശോധിക്കുകയും റിങ്ങുകൾ എന്താണെന്നും സബ്റിങ്ങുകൾ എന്താണെന്നും നിർവചിച്ചു നമ്മൾ ഈ ചർച്ച തുടരുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ തുടക്കത്തിൽ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഒരു പ്രോപ്പർട്ടി പറയാം ഒരു റിങ്ങിന്റെ നിർവചനത്തിലെ സവിശേഷതകളിലൊന്ന് ഓർക്കുക റിങ്ങിന്റെ ഗുണനം കമ്മ്യൂട്ടേറ്റീവ് ആണ് ഗുണിതങ്ങൾ കമ്മ്യൂട്ടേറ്റീവ് ആയി ആവശ്യപ്പെടാതെ റിങ്ങുകൾ നിർവചിക്കാൻ കഴിയും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ആ വാക്ക് നിർവചനത്തിൽ നിന്ന് നീക്കംചെയ്യുകയാണെങ്കിൽ ആ ഗുണനം കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കേണ്ടതില്ല ഇതിന് മറ്റ് പ്രോപ്പർട്ടികൾ ഉണ്ടായിരിക്കണം അത് അസ്സോസിയേറ്റീവ് ആണ് ഒന്ന് ഉണ്ട് അത് ക്ലോസ്ഡ് ആണ് മറ്റ് പ്രോപ്പർട്ടികൾ എന്തൊക്കെയാണ് അതിൽ ഐഡന്റിറ്റി എലമെന്റ് അടങ്ങിയിരിക്കുന്നു അത് അസ്സോസിയേറ്റീവ് ആണ് അത്തരത്തിലുള്ള റിങ്ങുകൾ പഠിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അവയെ "നോൺ കമ്മ്യൂട്ടേറ്റീവ് റിംഗുകൾ" എന്ന് വിളിക്കുന്നു കാരണം നിങ്ങൾ കമ്മ്യൂട്ടിവിറ്റി ആവശ്യപ്പെടുന്നില്ല ആളുകൾ പഠിക്കുന്ന ഒരു പ്രധാന ഉദാഹരണമാണിത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്ത റിങ്ങുകളാണ് ഉദാഹരണത്തിന് മാട്രിക്സ് റിംഗ് ഞാൻ ഇതിൽ ധാരാളം സമയം ചെലവഴിക്കില്ല ഇത് വിശദമായി ചർച്ച ചെയ്യില്ല എന്നാൽ മാട്രിക്സ് റിങ്ങുകൾ അങ്ങനെയാണ് ഉദാഹരണത്തിന് നിങ്ങൾ നോക്കുക റിയൽ എൻട്രികളുള്ള 3 X 3 സ്ക്വയർ മെട്രിക്സ് ഇത് ഒരു ഉദാഹരണം മാത്രമാണ് ഏത് റിങ്ങിലും ഏത് എൻട്രികളുമൊത്ത് ഏത് വലുപ്പത്തിലുള്ള സ്ക്വയർ മെട്രിക്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഗുണിക്കാം ഇന്റിജേഴ്സ് റിയലുകൾ കോംപ്ലക്സുകൾ റാഷണൽ നമ്പേഴ്സ് തുടങ്ങിയവ ഇവിടെ അഡിഷൻ ചേർക്കാം ഇത് തികച്ചും നല്ലൊരു അബിലിയൻ ഗ്രൂപ്പാണ് നിങ്ങൾക്ക് മെട്രിക്സുകൾ ഗുണിക്കാം ഇത് ഐഡന്റിറ്റി ഘടകമുള്ള അസ്സോസിറ്റീവ് ആണ് പക്ഷേ ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല അതിനാൽ അവസാന വീഡിയോയിലുള്ള എന്റെ നിർവചനത്തിന്റെ അർത്ഥത്തിൽ ഇത് ഒരു റിങ് അല്ല എന്നിരുന്നാലും ഇതിനെ നോൺ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് വിളിക്കുന്നു നോൺ കമ്മ്യൂട്ടേറ്റീവ് റിങ്ങുകളെയും അവയുടെ ഗുണങ്ങളെയും കുറിച്ചുള്ള പഠനം നോൺ കമ്മ്യൂട്ടേറ്റീവ് ആൾജിബ്ര എന്ന വിഷയത്തിൽ വരുന്നു ഈ കോഴ്സിൽ അത് പഠിക്കുന്നില്ല ഈ കോഴ്സിൽ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് റിങ്ങുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഈ കോഴ്സിൽ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് റിങ്ങുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ നോൺ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് സിദ്ധാന്തം ഒരു പ്രധാന വിഷയമാണ് അത് ആളുകൾ പഠിക്കുന്ന ഒരു പഠനമാണ് പക്ഷേ ഈ കോഴ്സിൽ നമ്മൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല അതിനാൽ ഗുണനം കമ്മ്യൂട്ടേറ്റീവ് ആയ റിങ്ങുകളെ മാത്രമേ നമ്മൾ നോക്കൂ പ്രത്യേകിച്ചും ഈ കോഴ്സിൽ മാട്രിക്സ് റിങ്ങുകൾ നമ്മൾ പഠിക്കില്ല മറ്റൊരു പ്രോപ്പർട്ടി ഗുണിത ഐഡന്റിറ്റി ആവശ്യപ്പെടാതെ റിങ്ങുകളെ നിർവചിക്കാം ശരി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ നിർവചനം അനുസരിച്ച് ഏതെങ്കിലും റിങ്ങിൽ '1' ഉണ്ടായിരിക്കുമെന്ന് ഓർക്കുക ചിലപ്പോൾ R നെ 2Z ആയി എടുക്കുകയാണെങ്കിൽ മറ്റ് പ്രോപ്പർട്ടികൾ ഉണ്ടായിരിക്കും ഇത് എല്ലാ ഈവൻ നമ്പേഴ്സിന്റെയും സെറ്റാണ് ഈവൻ നമ്പേഴ്സ് അതായത് 2n ഫോമിലെ ഇന്റിജേഴ്സ് ഇവിടെ n ഒരു ഇന്റിജെർ അവയ്ക്ക് ഒരു റിങ്ങിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട് അതിനാൽ അഡിഷനിൽ ഇത് ഒരു അബിലിയൻ ഗ്രൂപ്പാണ് കാരണം 0 ഉണ്ട് ഒരു ഇരട്ട സംഖ്യയുടെ വിപരീതം ഉണ്ട് രണ്ട് ഇരട്ടസംഖ്യകൾ കൂട്ടിയാൽ ഒരു ഇരട്ടസംഖ്യയാണ് ഇതിന് ഗുണനവുമുണ്ട് കാരണം നിങ്ങൾ രണ്ട് ഇരട്ടസംഖ്യകൾ ഗുണിച്ചാൽ നിങ്ങൾക്ക് ഒരു ഇരട്ട സംഖ്യ ലഭിക്കുന്നു അസോസിയേറ്റീവ് ആണ് ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ് പക്ഷേ 1 ഇല്ല 1 ആയി പ്രവർത്തിക്കുന്ന ഒരു ഘടകവുമില്ല സെറ്റിൽ 1 ഇല്ലാത്തതിനാൽ ഇവിടെ ഒരു സംഖ്യയും ഗുണനത്തിനുള്ള ഐഡന്റിറ്റിയായി പ്രവർത്തിക്കുന്നില്ല കാരണം നിങ്ങൾ ഇവിടെയുള്ള എന്തിനോടും ഏതെങ്കിലും സംഖ്യയെ ഗുണിച്ചാൽ അത് ആ സംഖ്യ തിരികെ നൽകില്ല അതിനാൽ ഇതിൽ 1 ഇല്ല ചിലപ്പോൾ ഗുണിത ഐഡന്റിറ്റി ഇല്ലാതെ യൂണിറ്റ് ഇല്ലാതെ റിങ്ങുകൾ പരിഗണിക്കുന്നതിന് നിങ്ങളുടെ റിങ്ങിന്റെ നിർവചനം വിപുലീകരിക്കേണ്ടത് പ്രധാനമാണ് പക്ഷേ നമ്മൾ അത് ചെയ്യുന്നില്ല അതിനാൽ ഈ കോഴ്സിൽ ഇത് വീണ്ടും ഊന്നിപ്പറയട്ടെ ഞാൻ ഒരിക്കൽ ഈ പരാമർശങ്ങൾ നടത്തും ഞാൻ അത് വീണ്ടും പറയില്ല ഈ കോഴ്സിൽ നമ്മൾ ഇത് പരിഗണിക്കില്ല അതിനാൽ എല്ലായ്പ്പോഴും റിങ്ങുകൾക്ക് ഗുണന ഐഡന്റിറ്റി ഉണ്ടെന്ന് നമ്മൾ അനുമാനിക്കും അടിസ്ഥാനപരമായി ഞാൻ പറയുന്നത് റിങ്ങിന്റെ നിർവചനം എന്തുതന്നെയായാലും എന്റെ മുമ്പത്തെ വീഡിയോയിൽ ആദ്യത്തെ വീഡിയോ അവസാന വീഡിയോ പറയുന്നതാണ് നമ്മൾ പരിഗണിക്കുന്ന റിങ് ആളുകൾ പഠിക്കുന്ന മറ്റ് തരത്തിലുള്ള കാര്യങ്ങളുണ്ടെന്ന് നിങ്ങ ളോട് സൂചിപ്പി ച്ചു എന്ന് മാത്രം പക്ഷേ ഈ കോഴ്സിൽ ഞാൻ നൽകിയ നിർവചനത്തിൽ നമ്മൾ ഉറച്ചുനിൽക്കും റിങ്ങുകളുടെ സവിശേഷതകൾ തുടരുന്നതിന് മുമ്പ് റിങ്ങുകളുടെ കൂടുതൽ ഉദാഹരണങ്ങൾ ഞാൻ തരാം അവസാന വീഡിയോയിലെ റിങ്ങുകളുടെ വിവിധ റിങ്ങുകളുടെ ഉദാഹരണങ്ങൾ നമ്മൾ നോക്കുന്നു അവയെല്ലാം കോംപ്ലക്സ് നമ്പർകളുടെ ഉപസെറ്റുകളാണ് അതിനാൽ അവ വാസ്തവത്തിൽ കോംപ്ലക്സ് നമ്പർകളുടെ ഉപ റിങ്ങുകളാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് C ഉള്ളിൽ ഇല്ലാത്ത റിങ്ങുകളുടെ ഉദാഹരണങ്ങളാണ് റിങ്ങുകളുടെ ഉദാഹരണങ്ങൾ ധാരാളം ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു ഒഴിവാക്കാനുള്ള ഒരു നിസ്സാര ഉദാഹരണം സീറോ റിംഗ് നമ്മൾ ഇത് വേഗത്തിൽ പറയും സീറോ റിങ് 0 എന്ന ഘടകം ഉൾക്കൊള്ളുന്ന ഒരു റിങ് മാത്രമാണ് അവസാന വീഡിയോയിൽ ഞാൻ എഴുതിയ ഒരു റിങ്ങിന്റെ എല്ലാ ഗുണങ്ങളും ഇവിടെ ഇത് നിസ്സാരമായി തൃപ്തിപ്പെടുത്തുന്നു അഡിഷനിലും മുൾട്ടിപ്ലിക്കേഷനിലും ഇത് ക്ലോസ്ഡ് ആണ് അതിനാൽ ഇത് അഡിഷന് കീഴിലുള്ള ഒരു അബിലിയൻ ഗ്രൂപ്പാണ് കൂടാതെ ഗുണനം അസ്സോസിയേറ്റീവ് ആണ് ഈ റിംഗിലെ ഐഡന്റിറ്റി എലമെന്റ് ഗുണിത ഐഡന്റിറ്റി എന്താണ് ഈ റിങ്ങിൽ 1 ഉണ്ട് പക്ഷേ അത് 0 ന് തുല്യമാണ് ഈ റിംഗിൽ 1 എന്നത് 0 ന് തുല്യമാണ് ഇത് ഒരു നിസ്സാര ഉദാഹരണമാണ് ഇതിനായി ധാരാളം സമയം ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ഗ്രൂപ്പുകൾ പഠിക്കുമ്പോൾ ഞാൻ പരിഗണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റിങ്ങിന്റെ ഒരു ഉദാഹരണം ഇത് അതിൽ ഒന്ന് ആണ് നിങ്ങൾ ഗ്രൂപ്പ് ഉദ്ധരണികൾ ശരിയായി പഠിച്ചു നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉപഗ്രൂപ്പ് ഉദ്ധരിക്കാനാകും നമുക്ക് Z എടുത്ത് nZ നോക്കാം ആദ്യം നമുക്ക് ഒരു ഉദാഹരണമായി നോക്കാം 3Z എന്ന് പറയാം 3Z എന്നത് Z ന്റെ ഒരു ഉപഗ്രൂപ്പാണ് അതിനാൽ ഇവിടെ ഞാൻ അഡിഷൻ പരിഗണിക്കുന്നു ഇത് Z നെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്ന ഒരേയൊരു പ്രവർത്തനമാണ് അതിനാൽ 3Z എന്നത് Z ഇന്റെ ഉപഗ്രൂപ്പാണ് കാരണം നിങ്ങൾ ഇതിന്റെ 2 എലെമെന്റ്സ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ മറ്റൊരു എലെമെന്റ് ലഭിക്കും 3Zന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇവ 3ന്റെ ഗുണിതങ്ങളാണ് അതിനാൽ നിങ്ങൾക്ക് 3ന്റെ 2 ഗുണിതങ്ങളുണ്ടെങ്കിൽ അവ വീണ്ടും ചേർത്ത് നിങ്ങൾക്ക് 3ന്റെ ഗുണിതം ലഭിക്കും 0 എന്നത് 3ന്റെ ഗുണിതമാണ് 3 ന്റെ ഗുണിതത്തിന്റെ വിപരീതവും 3ന്റെ ഗുണിതമാണ് അതിനാൽ കോഷ്യന്റ് ഗ്രൂപ്പ് പരിഗണിക്കുക Z മോഡ് 3Z പരിഗണിക്കുക നിങ്ങളുടെ ഗ്രൂപ്പ് തിയറി കോഴ്സിൽ നിന്ന് ഓർക്കുക ഇതിന് നമ്മൾ സാധാരണയായി സൂചിപ്പിക്കുന്ന 3 എലെമെന്റ്സ് ഉണ്ട് ഇത് Z ലെ 3Z ന്റെ വലത് കോസെറ്റുകളുടെ കൂട്ടമാണ് അവയിൽ 3 എണ്ണം 0 1 2 ഇത് ശരിക്കും 0 3Z ആണ് ഇത് 1 3Z ആണ് ഇത് 2 3Z ആണ് ഇവിടെ അഡിഷൻ ഉണ്ട് ഏതെങ്കിലും എലെമെന്റ്സ് എടുത്ത് അവരെ ആഡ് ചെയ്യാം ഉദാഹരണത്തിന് 1 0 1 0 1 1 0ഐഡന്റിറ്റി എലെമെന്റാണ് അതിനാൽ ഇത് ഒരു ഗ്രൂപ്പാണ് ഇവിടെ Z mod 3Z ന് അഡിഷൻ ഉണ്ടെന്ന് ഞാൻ രേഖപ്പെടുത്തട്ടെ അതിനാൽ പ്ലസ് പ്രകാരം അത് വീണ്ടും സൂചിപ്പിക്കാം അതിന് കീഴിലുള്ള ഒരു ഗ്രൂപ്പാണ് ഇത് വാസ്തവത്തിൽ ഇത് ഒരു അബെലിയൻ ഗ്രൂപ്പാണ് വാസ്തവത്തിൽ ഓർഡർ 3 ഉള്ള ഏത് ഗ്രൂപ്പും അബെലിയൻ ആണെന്ന കാര്യം ശ്രദ്ധിക്കുക ഈ ഗ്രൂപ്പിന്റെ ഓർഡർ 3 ആണ് അതിനാൽ ഇത് അബെലിയൻ ആണ് ഗ്രൂപ്പ് തിയറിയിൽ നിങ്ങൾ ഇവിടെ നിർത്തുമായിരുന്നു ഇപ്പോൾ ഈ സെറ്റിൽ ഒരു ഗുണനം അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഒരു ഗ്രൂപ്പാണോ Z mod 3Z ഉണ്ട് ഇതിന് 3 എലെമെന്റ്സ് മാത്രമേ ഉള്ളൂ അതിനാൽ ഗുണനം നിർവചിക്കുന്നത് എനിക്ക് എളുപ്പമാണ് എങ്ങനെ ഗുണിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ ആഡ് ചെയ്യുന്നത് പോലെ നിങ്ങൾ ഗുണിക്കും 1 ബാറും 2 ബാറും നിങ്ങൾ എങ്ങനെ ചേർത്തു ആ കോസെറ്റുകളുടെ ഏതെങ്കിലും പ്രതിനിധികളെ നിങ്ങൾ തിരഞ്ഞെടുത്തു ഉദാഹരണത്തിന് 1 ബാർ നിങ്ങൾക്ക് പ്രതിനിധി 1 എടുക്കാം 2 ബാർ നിങ്ങൾക്ക് പ്രതിനിധീകരിക്കാൻ കഴിയും പ്രതിനിധി 2 എടുക്കുക അവ ചേർക്കുക നിങ്ങൾക്ക് 3 ലഭിക്കും അതിനാൽ നിങ്ങൾ 3 ന്റെ കോസെറ്റ് എടുക്കുന്നു അത് 0 ആണ് ഗുണനത്തിനായി നിങ്ങൾ അതേ കാര്യം തന്നെ ചെയ്യുന്നു നിങ്ങൾ രണ്ട് പ്രതിനിധികളെ എടുത്ത് ഗുണിക്കുക ഉദാഹരണത്തിന് 0 1 0 0 2 0 1 2ഇത് എന്തായിരിക്കും നിങ്ങൾ 1 ഉം 2 ഉം ഗുണിച്ചാൽ നിങ്ങൾക്ക് 2 ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് 2ലഭിക്കും മറ്റൊരു മാർഗ്ഗം പൂർണ്ണസംഖ്യകളുടെ ഗുണനം കമ്മ്യൂട്ടേറ്റീവ് ആയതിനാൽ ഈ എലെമെന്റ്സിന്റെ ഓർഡർ നിങ്ങൾ പരസ്പരം മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് അതേ എലമെന്റ് ലഭിക്കും അവസാനമായി 0 0 ഞാൻ തന്നെ ഗുണിക്കാം 0 ശരിയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു കാരണം ഇത് വ്യക്തമാണ് കാരണം 0 x 0 0 ആണ് 1 എന്താണ് ഇത് 1 1 ബാർ ആണ് അതിനാൽ ഇത് 1 ബാർ ആണ് 241 ആണ് കാരണം 41 mod 3 ആണ് അതിനാൽ ഇത് Z mod 3Z ലെ ഗുണനത്തെ പൂർണ്ണമായും വിവരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധാപൂർവ്വം ഉറ്റുനോക്കുകയാണെങ്കിൽ ഈ ഗുണനത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നു ഇതിന് ഒരു ഐഡന്റിറ്റി ഘടകമുണ്ട് ഒരു ഐഡന്റിറ്റി ഘടകം എന്താണ് അതായത് 1 ഒരു ഐഡന്റിറ്റി എലെമെന്റാണ് കാരണം നിങ്ങൾ 1 കൊണ്ട് എന്ത് ഗുണിച്ചാലും നിങ്ങൾക്ക് ആ ഘടകം തിരികെ ലഭിക്കും അത് തീർച്ചയായും സഹായകമാണ് എന്തുകൊണ്ടാണ് അത് ഇത് ഞാൻ ധാരാളം സമയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒന്നാണ് പക്ഷേ ഇത് അടിസ്ഥാനപരമായി ഇന്റിജേഴ്സിന്റെ ഗുണനം അസ്സോസിയേറ്റീവ് ആയതുകൊണ്ടാണ് അതിനാൽ കോസെറ്റുകൾ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ശരിക്കും സംഖ്യകളെ ഗുണിച്ച് അനുബന്ധ കോസെറ്റുകൾ എടുക്കുന്നു അതിനാൽ ഇത് അസ്സോസിയേറ്റീവ് ആണ് ഇതേ കാരണത്താൽ ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ് കാരണം ഇന്റിജേഴ്സിന്റെ ഗുണനം കമ്മ്യൂട്ടേറ്റീവ് ആണ് അതിനാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഗുണങ്ങളും ഇതിന് ഉണ്ട് അതിനാൽ നമ്മൾക്ക് ഇപ്പോൾ നിഗമനം ചെയ്യാൻ കഴിയും Z mod 3 Z ഒരു റിംഗ് ആണ് അതിനാൽ Z mod 3 Z ഒരു റിംഗാണ് ഇത് കൃത്യമായി 3 ഘടകങ്ങളുള്ള ഒരു റിംഗാണ് സാധാരണയായി എല്ലാ പോസിറ്റീവ് സംഖ്യകൾക്കും നെഗറ്റീവ് അല്ലാത്ത ഓരോ സംഖ്യയ്ക്കും നമുക്ക് പറയാം Z mod nZ തികച്ചും വ്യത്യാസമില്ല ഇത് കൃത്യമായി ഒരേ കണക്കുകൂട്ടലാണ് കൂടാതെ 3 നെ n കൊണ്ട് മാറ്റിസ്ഥാപിച്ചാൽ നിങ്ങൾക്ക് Z mod n Z റിംഗ് ആണെന്ന് മനസിലാക്കാം n പോസിറ്റീവ് ആണെങ്കിൽ എലെമെന്റ്സിന്റെ എണ്ണം കൃത്യമായി n ആണ് കാരണം നമുക്ക് ഇത് ഇതിനകം തന്നെ അറിയാം കാരണം Z mod nZ ഓർഡർ n ഉള്ള ഒരു സെറ്റ് ആണ് അതിനാൽ നമ്മൾ ഗുണനം നൽകുന്നു അതിനാൽ ഇത് n ഓർഡർ ഉള്ള ഒരു റിങ് ആണ് നമ്മൾ പ്രത്യേകിച്ചും ചെയ്തതിന് ഏതെങ്കിലും പോസിറ്റീവ് സംഖ്യ നൽകുന്നു ആ ഓർഡറിന്റെ ഒരു റിങ് നമ്മൾ നിർമ്മിച്ചു ഉദാഹരണത്തിന് n 1 ന് തുല്യമാണെങ്കിൽ ഞാൻ നേരത്തെ ചർച്ച ചെയ്ത 0 റിംഗ് നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നിങ്ങൾ n ന് 1 ന് തുല്യമാണെങ്കിൽ 1 Z വെറും 1 Z ആണ് അതിനാൽ Z mod Z ന് 1 കോസെറ്റ് മാത്രമേയുള്ളൂ അതായത് 0 കോസെറ്റ് അതിനാൽ അതാണ് 0 റിംഗ് പക്ഷേ Z mod 2 Zന് 2 എലെമെന്റ്സ് ഉണ്ട് Z mod 3Zന് 3 എലെമെന്റ്സ് ഉണ്ട് പിന്നീട് നമ്മൾ റിങ്ങുകളുടെ ഹോമോമോർഫിസങ്ങളെക്കുറിച്ചും റിങ്ങുകളുടെ മറ്റ് ചില സവിശേഷതകളെക്കുറിച്ചും സംസാരിച്ചുതുടങ്ങിയാൽ n പോസിറ്റീവ് ആയിരിക്കുമ്പോഴെല്ലാം നിങ്ങൾ കാണും Z mod nZ C യുടെ ഉപ റിങ്ങായി തിരിച്ചറിയാൻ കഴിയില്ല അതിനാൽ ഇവ C യുടെ ഉപ റിങ്ങുകൾ അല്ലാത്ത റിങ്ങുകളുടെ ഉദാഹരണങ്ങളാണ് അതിനാൽ ഞാൻ അത് ഇവിടെ പരാമർശിക്കുകയും പിന്നീട് ഇത് ചർച്ച ചെയ്യുകയും ചെയ്യും n പോസിറ്റീവ് ആണെങ്കിൽ Z mod n നമുക്ക് കുറഞ്ഞത് 2 എന്ന് പറയാം കാരണം n 1 ന് തുല്യമായ നമുക്ക് 0 റിങ് ലഭിക്കുന്നു അത് തീർച്ചയായും C യുടെ ഒരു ഉപ റിങ്ങാണ് അതിനാൽ ഇത് C യുടെ ഉപ റിങ്ങല്ല അടുത്ത ഒരു ഉദാഹരണം കൂടി ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ C യുടെ ഉപ റിങ് അല്ല എനിക്ക് നമ്പറിംഗ് അറിയില്ല എന്നതാണ് ഇത് അടുത്തത് 3 ആണെന്ന് നമുക്ക് പറയാം അടുത്ത റിങ് എന്താണ് റിയൽ സംഖ്യകളിൽ നിന്ന് റിയൽ സംഖ്യകളിലേക്കുള്ള തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ ഗണമായി R നെ നമുക്ക് നോക്കാം അതിനാൽ f കണ്ടിന്യൂസ് ആണ് റിയൽ സംഖ്യകളുടെ സെറ്റ് മുതൽ കണ്ടിന്യൂസ് ആയുള്ള റിയൽ സംഖ്യകളുടെ സെറ്റ് വരെയുള്ള എല്ലാ ഫങ്ക്ഷനുകളും ഞാൻ നോക്കുന്നു ഇത് നിങ്ങൾ അനാലിസിസിൽ പഠിച്ച ഒരു കാര്യം മാത്രമാണെന്ന് ഓർമ്മിക്കുക അതിനാൽ R മുതൽ R വരെയുള്ള തുടർച്ചയായ ഫങ്ക്ഷനുകൾ നിങ്ങൾ അത്തരത്തിലുള്ളതെല്ലാം എടുക്കുന്നു ഇത് റിയൽ നമ്പേഴ്സിൽ ഒരു റിങ്ങായി ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ R ൽ ഒരു റിംഗ് ഘടനയുണ്ട് സാധാരണ R എന്നത് കണ്ടിന്യൂസ് ആയ ഫങ്ക്ഷനുകളുടെ ഒരു സെറ്റ് ആണ് ഇത് എന്താണ് ആദ്യം മുതൽ നമ്മൾ ആരംഭിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മിക്കുക അതിനാൽ മുമ്പത്തെ ഉദാഹരണങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതുപോലെയല്ല ഇവിടെ അഡിഷനും മുൾട്ടിപ്ലിക്കേഷനും ശ്രദ്ധാപൂർവ്വം നിർവചിക്കേണ്ടതുണ്ട് അപ്പോൾ അഡിഷൻ എങ്ങനെ നിർവചിക്കാം നമുക്ക് തുടർച്ചയായ രണ്ട് ഫംഗ്ഷനുകൾ എടുക്കാം f g എന്നിവ രണ്ടും R നുള്ളിലാണെന്ന് നമുക്ക് പറയാം അതായത് f എന്നത് R മുതൽ R വരെയുള്ള ഒരു ഫംഗ്ഷനാണ് അത് കണ്ടിന്യൂസ് ആണ് g അതുപോലെ തന്നെ ആണ് അതിനാൽ f g ശരിയായി നിർവചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് എന്ത് ആയിരിക്കണം fg എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫംഗ്ഷൻ നിർവചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വ്യക്തമായ ഒരു കാര്യമുണ്ട് അതിനാൽ നിർവ്വചിക്കുക കാരണം ടാർഗെറ്റ് സ്പേസ് ഒരു റിയൽ സംഖ്യയുടെ fg നിർവചിക്കാൻ കഴിയും അതിനാൽ ഏതൊരു റിയൽ നമ്പർ 'a' എടുക്കുക ആ റിയൽ നമ്പറിലെ fg ഫംഗ്ഷൻ 'fg' ആണ് ഇത് തീർച്ചയായും ഒരു ഫംഗ്ഷൻ മാത്രമാണ് fg റിയൽ നമ്പേഴ്സിൽ തുടർച്ചയാണെന്ന് കാണിക്കുന്നതിനുള്ള വിശകലനത്തിലെ ഒരു എക്സ്സർസൈസ് ആണ് ഇത് അതിനാൽ ഇത് കണ്ടിന്യൂസ് ആണ് അതിനാൽ f g R ൽ ഉണ്ട് അതിനാൽ R ഇൽ അഡിഷൻ ഉണ്ടെന്ന് ഇത് എന്നോട് പറയുന്നു കണ്ടിന്യൂസ് ആയ രണ്ട് ഫംഗ്ഷനുകൾ ചേർന്ന് കണ്ടിന്യൂസ് ആയ ഒരു ഫങ്ക്ഷൻ തരുന്നു ഇപ്പോൾ നമ്മൾക്ക് അഡിഷൻ ഉണ്ട് അതിനാൽ R എന്നത് ഒരു അബിലിയൻ ഗ്രൂപ്പാണ് എന്ന് നമുക്ക് ചോദിക്കാം ഞാൻ നിർവ്വചിച്ച ഈ പ്രത്യേക അഡിഷന് കീഴിലുള്ള R ഒരു അബെലിയൻ ഗ്രൂപ്പാണോ അത് അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വേഗത്തിൽ പരിശോധിക്കാൻ കഴിയും 0 എലമെന്റ് എന്താണ് സീറോ എലമെന്റ് സീറോ ഫംഗ്ഷനാണ് എന്താണ് സീറോ ഫംഗ്ഷൻ ഈ ഫംഗ്ഷൻ R ലെ എല്ലാ 'a' നും 0 ലേക്ക് അയയ്ക്കുന്നു അതിനാൽ സീറോ ഫംഗ്ഷൻ എന്നത് ഓരോ റിയൽ നമ്പറുകളെയും റിയൽ നമ്പറിലേക്ക് അയയ്ക്കുന്ന ഒരു ഫംഗ്ഷനാണ് തീർച്ചയായും ഇത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ഇത് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷനാണ് അതിനാൽ ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് നമ്മൾ 0 ലേക്ക് എന്തെങ്കിലും ചേർത്താൽ ഞാൻ ഫംഗ്ഷനെ 0 കൊണ്ട് സൂചിപ്പിക്കുന്നു f0 f 0 f കാരണം 0 0 ആണ് അതിനാൽ ഇത് 0 എലമെന്റ് ആണ് ഒരു ഐഡന്റിറ്റി ഘടകമുണ്ട് തീർച്ചയായും വിപരീതങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ കഴിയും അതിനാൽ f ഒരു കണ്ടിന്യൂസ് ആയ ഫംഗ്ഷൻ നൽകിയതിനാൽ നിങ്ങൾക്ക് f എന്ന് നിർവചിക്കാം അതിനാൽ ഇത് ഒരു കണ്ടിന്യൂസ് ആയ പ്രവർത്തനമാണ് ഓരോ കണ്ടിന്യൂസ് ആയ ഫങ്ക്ഷനും നെഗറ്റീവ് ഒരു കണ്ടിന്യൂസ് ആയ ഫംഗ്ഷൻ ആണ് നമ്മൾ ചിഹ്നം മാറ്റുകയാണ് ഓരോ ഘടകത്തിനും വിപരീതമുണ്ട് കൂടാതെ അസ്സോസിയേറ്റീവ് ആണെന്നും കമ്മ്യൂട്ടേറ്റീവ് ആണെന്നും പരിശോധിക്കാൻ കഴിയും നമ്മൾക്ക് ഒരു അബിലിയൻ ഗ്രൂപ്പ് ആവശ്യമാണെന്ന് ഓർക്കുക ഇവ രണ്ടും പിന്തുടരുന്നു അവർ രണ്ടുപേരും പിന്തുടരുന്നതിന്റെ അടിസ്ഥാന കാരണം ഇവ രണ്ടും പിന്തുടരുന്നത് ആ അഡിഷൻ ആണ് കൂടാതെ R ൽ അഡിഷൻ കമ്മ്യൂട്ടേറ്റീവുമാണ് കാരണം നമ്മൾ ഈ അഡിഷൻ R ലാണ് കാരണം f g യുടെ a ഉം റിയൽ സംഖ്യകളിലാണ് അതിനാൽ നിങ്ങൾ അവയെ റിയൽ അക്കങ്ങളായി ചേർക്കുന്നു ഇവ രണ്ടും പിന്തുടരുന്നു കാരണം പ്ലസിന് ഈ സവിശേഷതകൾ R ൽ ഉണ്ട് ശരി ഈ ചോദ്യത്തിനുള്ള ഉത്തരം അതെ R ആണ് റിയൽ സംഖ്യകളിലെ കണ്ടിന്യൂസ് ആയ ഫംഗ്ഷനുകളുടെ കൂട്ടം റിയൽ സംഖ്യകളിലെ റിയൽ മൂല്യമുള്ള കണ്ടിന്യൂസ് ആയ ഫംഗ്ഷനുകൾ ഗുണനത്തിന് കീഴിലുള്ള ഒരു അബെലിയൻ ഗ്രൂപ്പാണ് അപ്പോൾ R ൽ ഗുണനം എന്താണ് അതിനാൽ R റിയൽ നമ്പറുകളിലെ റിയൽ മൂല്യമുള്ള കണ്ടിന്യൂസ് ആയ ഫംഗ്ഷനുകളിലേക്ക് നിങ്ങൾ എങ്ങനെ ഗുണിക്കും അതേ രീതിയിൽ തന്നെ അതിനാൽ അഡിഷൻ നമ്മൾ നിർവചിച്ചുവെന്ന് പറയാം അതിനാൽ f g R ൽ ഉണ്ടെന്ന് നമുക്ക് പറയാം R മുതൽ R വരെയുള്ള ഒരു കണ്ടിന്യൂസ് ആയ ഫംഗ്ഷനായി നിങ്ങൾ fg യെ എങ്ങനെ നിർവചിക്കും a യുടെ fg ആയിരിക്കണം റിയൽ സംഖ്യകൾക്ക് ഗുണനമുണ്ടെന്ന വസ്തുത നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നു റിയൽ സംഖ്യകൾക്ക് ഇവിടെ അഡിഷൻ ഉണ്ടെന്ന വസ്തുത നമ്മൾ ഉപയോഗിക്കുന്നു റിയൽ സംഖ്യകൾ ഗുണനം എന്ന് പറയുന്നു fg കണ്ടിന്യൂസ് ആണെന്ന് പരിശോധിക്കുന്നത് എളുപ്പമുള്ള എക്സ്സർസൈസ് ആണ് fg R ലാണ് അതിനാൽ f g എന്നിവ കണ്ടിന്യൂസ് ആണെങ്കിൽ അവയുടെ പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും അതിനാൽ ഒരു ഓപ്പറേഷൻ ഉണ്ട് ഓരോ റിയൽ സംഖ്യയെയും 1 ലേക്ക് അയയ്ക്കുന്ന കോൺസ്റ്റന്റ് ഫംഗ്ഷൻ 1 എന്ന ഫംഗ്ഷൻ ഗുണിത ഐഡന്റിറ്റി ആണോ എന്ന് പരിശോധിക്കാൻ കഴിയും കാരണം സ്ഥിരമായ പ്രവർത്തനം f 1 f ആണെങ്കിൽ അത് ഗുണിത ഐഡന്റിറ്റിയാണ് കൂടാതെ നമുക്ക് വേഗത്തിൽ പരിശോധിക്കാൻ കഴിയും അത് അസ്സോസിയേറ്റീവ് കമ്മ്യൂട്ടേറ്റീവ് അഡിഷൻ റിയൽ സംഖ്യകളിൽ കമ്മ്യൂട്ടേറ്റീവ് അസ്സോസിറ്റീവ് എന്നിവ പോലെ തന്നെ ഗുണനവും റിയൽ നമ്പറുകളിൽ അസ്സോസിയേറ്റീവ് കമ്മ്യൂട്ടേറ്റീവ് ആണ് അത് ഒരു കൂട്ടം ഫംഗ്ഷനുകളിലേക്ക് പോകുന്നു അതിനാൽ R ലെ ഗുണനത്തിനും ആവശ്യമായ ഗുണങ്ങളുണ്ട് അതിനാൽ R ഒരു റിംഗ് രസകരമായ ഒരു റിങ് നമ്മൾ തിരിച്ചുവന്ന് ഈ കോഴ്സിൽ ഈ റിങ് വീണ്ടും പരിഗണിക്കും ഇത് ഒരു റിംഗ് ആണ് റിയൽ സംഖ്യകളിലെ കണ്ടിന്യൂസ് ആയ റിയൽ മൂല്യമുള്ള എല്ലാ ഫങ്ക്ഷനുകളും അടങ്ങുന്ന ഒരു റിങ് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ച ചില റിങ്ങുകളാണിവ ഒരു പ്രധാന നിർവചനം അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് റിങ്ങുകളുടെ കൂടുതൽ സവിശേഷതകൾ നമ്മൾ പരിശോധിക്കും ഇതാണ് നിർവചനം ഒരു റിംഗ് ഗുണനം ഒരു ഗ്രൂപ്പ് പ്രവർത്തനമല്ലെന്ന് ശ്രദ്ധിക്കുക കാരണം ഒരു ഗ്രൂപ്പ് തത്ത്വം തൃപ്തിപ്പെടുത്താതിരിക്കാൻ ഇത് അനുവദിച്ചിരിക്കുന്നു അതായത് എല്ലാ എലെമെന്റ്സിനും ഒരു ഗുണിത വിപരീതം ആവശ്യമില്ല പക്ഷേ ചിലപ്പോൾ ചില എലെമെന്റ്സിനും ഗുണിത വിപരീതങ്ങളുണ്ട് അതിനാൽ നമ്മൾ അവർക്ക് ഒരു പ്രത്യേക പേര് നൽകാൻ ആഗ്രഹിക്കുന്നു അതിനാൽ R ഒരു റിങ് ആകട്ടെ R ലെ ഒരു എലെമെന്റിന് ഒരു ഗുണിത വിപരീതം ഉണ്ടെങ്കിൽ അതിനെ ഒരു യൂണിറ്റ് എന്ന് വിളിക്കുന്നു ഗുണിത വിപരീതമുള്ള ഒരു റിങ്ങിന്റെ എലെമെന്റാണ് യൂണിറ്റ് ഒരു റിംഗിലെ എല്ലാ എലെമെന്റ്സിനും ഗുണിത വിപരീതങ്ങൾ ഉണ്ടായിരിക്കണമെന്നില്ല ഇത് ഒരു യൂണിറ്റ് ആയിരിക്കേണ്ടതില്ല പക്ഷേ നമ്മൾ അതിനെ ഒരു യൂണിറ്റ് എന്ന് വിളിക്കുന്നു ഒരു പ്രധാന പ്രോപ്പർട്ടി R ഒരു റിങ് ആണെങ്കിൽ R സീറോ റിങ് അല്ലെന്ന് കരുതുക അതിനാൽ R എന്നത് 0 എന്ന എലമെന്റ് അടങ്ങുന്ന സീറോ റിങ് അല്ല അത് രസകരമായ ഒരു റിങ് അല്ല നമ്മൾ സാധാരണയായി അത് പഠിക്കുന്നില്ല R ഒരു റിങ് ആണെങ്കിൽ ഇപ്പോൾ അത് സീറോ റിങ് അല്ലെങ്കിൽ നാമെല്ലാവരും അത് ഊഹിക്കും അപ്പോൾ 1 ഒരു യൂണിറ്റ് ആണ് കാരണം ഇതിന് ഗുണിത വിപരീതമുണ്ട് 1 തവണ 1 എന്നത് 1 ആയതിനാൽ 1 ന് ഒരു വിപരീതം ഉണ്ട് 1 ന്റെ വിപരീതം 1 തന്നെ അതിനാൽ 1 എന്നത് ഒരു യൂണിറ്റാണ് അതിനാൽ പൂജ്യമല്ലാത്ത ഓരോ റിങ്ങിനും ഒരു യൂണിറ്റ് ഉണ്ട് പക്ഷേ മറ്റ് ചില യൂണിറ്റുകളും നിലവിലുണ്ട് ഇപ്പോൾ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം റിംഗ് Z എന്ന് നമുക്ക് പറയാനുള്ള യൂണിറ്റുകൾ ഏതാണ് Z സംഖ്യകളുടെ സെറ്റ് ഒരു റിങ്ങാണ് കാരണം ഇതിന് അഡിഷനും ഗുണനവും ഉണ്ടെന്ന് നമ്മൾ കണ്ടു യൂണിറ്റുകൾ ഏതാണ് 1 എന്നത് ഒരു യൂണിറ്റാണെന്ന് നമ്മൾ സമ്മതിച്ചു 1 എന്നത് പൂജ്യമല്ലാത്ത ഏതെങ്കിലും റിംഗിലെ ഒരു യൂണിറ്റാണ് പക്ഷേ മൈനസ് 1 ഇവിടെത്തന്നെ യൂണിറ്റാണ് കാരണം മൈനസ് 1 തവണ മൈനസ് 1 1 ആണ് അതിനാൽ മൈനസ് 1 ന് ഒരു ഗുണിത വിപരീതമുണ്ട് ഗുണിത വിപരീതമെന്നത് എന്താണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരിക്കണം 1 നേടുന്നതിന് നിങ്ങൾ ഗുണിക്കുന്ന ഒരു എലെമെന്റാണ് ഗുണിത വിപരീതം ഗുണിത വിപരീതം എന്നാൽ ഗ്രൂപ്പ് അർത്ഥത്തിൽ മാത്രം ഗുണിത ഐഡന്റിറ്റി ലഭിക്കുന്നതിന് നിങ്ങൾ ഏത് എലമെന്റ് കൊണ്ട് ഗുണിക്കുന്നുവോ അതാണ് ഗുണിത വിപരീതം മൈനസ് 1 എന്നത് ഒരു യൂണിറ്റാണ് കാരണം മൈനസ് 1 തവണ മൈനസ് 1 1 ആണ് പക്ഷേ മറ്റ് യൂണിറ്റുകളൊന്നുമില്ല എന്തുകൊണ്ടാണത് Z ൽ മറ്റ് യൂണിറ്റുകളൊന്നുമില്ല അതായത് നിങ്ങൾ ഏതെങ്കിലും സംഖ്യ എടുക്കുന്നു n ഒരു സംഖ്യയായിരിക്കട്ടെ അത് 1 മൈനസ് 1 എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് 1 നേടുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ട് ഗുണിക്കാമോ ഉദാഹരണത്തിന് n3 ആണെങ്കിൽ 1 നേടുന്നതിനായി എന്തെങ്കിലും കൊണ്ട് ഗുണിക്കാമോ ഇത് ശരിയല്ല ഇത് സാധ്യമല്ല നിങ്ങൾക്ക് 1 അല്ലെങ്കിൽ മൈനസ് 1 അല്ലാത്ത ഏതൊരു സംഖ്യയും ഗുണിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും 1 ലഭിക്കില്ല കാരണം വിപരീതം ലഭിക്കാൻ നിങ്ങൾ റാഷണൽ സംഖ്യകളിലേക്ക് പോകേണ്ടതുണ്ട് പക്ഷേ 1n എന്നത് ഒരു ഇന്റിജെർ അല്ല അതിനാൽ Z ലെ ഏക യൂണിറ്റുകൾ 1 മൈനസ് 1 എന്നിവയാണ് സമാനമായി ഇപ്പോൾ നമുക്ക് Q ലെ യൂണിറ്റുകൾ നോക്കാം Q ലെ യൂണിറ്റുകൾ റിയൽ നമ്പേഴ്സിൽ പൂജ്യമല്ലാത്ത റാഷണൽ സംഖ്യകളാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു അതിനാൽ പൂജ്യമല്ലാത്ത ഓരോ റാഷണൽ സംഖ്യയും ഒരു യൂണിറ്റാണ് എന്തുകൊണ്ടാണ് ഇത് അതിനാൽ പൂജ്യമല്ലാത്ത ഏതെങ്കിലും റാഷണൽ നമ്പർ എടുക്കുക ഇതിന്റെ തെളിവ് എന്താണ് നമുക്ക് റാഷണൽ സംഖ്യകളിൽ ഒരു ബൈ എടുക്കാം അതിനാൽ a b എന്നിവ ഇന്റിജേഴ്സ് ആണ് റാഷണൽ സംഖ്യകൾ ഇന്റിജേഴ്സിന്റെ അനുപാതമാണെന്ന് ഓർമ്മിക്കുക a പൂജ്യമല്ലെന്നും b പൂജ്യമല്ലെന്നും നമ്മൾ അനുമാനിക്കുന്നു നമ്മൾ ഒരു പൂജ്യമല്ലാത്ത റാഷണൽ സംഖ്യ എടുക്കുന്നു ഇതിന് ഒരു ഗുണിത വിപരീതമുണ്ടോ ഇത് സംഭവിക്കുന്നു കാരണം നിങ്ങൾ ba എടുക്കുന്നു a by b ന് ഒരു ഗുണിത വിപരീതമുണ്ട് അതിനാൽ ഇത് ഒരു യൂണിറ്റാണ് അതിനാൽ ഗുണിതമല്ലാത്ത ഓരോ റാഷണൽ സംഖ്യയ്ക്കും ഒരു ഗുണിത വിപരീതമുണ്ട് അതിനാൽ ഓരോ പൂജ്യമല്ലാത്ത റാഷണൽ സംഖ്യയും റാഷണൽ സംഖ്യകളുടെ വലയത്തിലെ ഒരു യൂണിറ്റാണ് അതിനാൽ Q ലെ ഒരു സെറ്റ് യൂണിറ്റുകൾ Q - 0 ന് തുല്യമാണ് ഈ പ്രോപ്പർട്ടി ഉള്ള റിങ്ങുകൾ വളരെ പ്രധാനമാണ് അവയ്ക്ക് ഒരു പ്രത്യേക പേരുണ്ട് അവയെ ഫീൽഡുകൾ എന്ന് വിളിക്കുന്നു ഈ നിർവചനം ഉപയോഗിച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോകുന്നു ഒരു ഫീൽഡ് ഒരു റിംഗ് R ആണ് അതിൽ പൂജ്യമല്ലാത്ത എല്ലാ എലെമെന്റ്സും ഒരു യൂണിറ്റാണ് അതിനാൽ Q ലെ യൂണിറ്റുകളുടെ സെറ്റ് Q - 0 ആണ് പൂജ്യമല്ലാത്ത ഓരോ റാഷണൽ സംഖ്യയും ഒരു യൂണിറ്റാണെന്ന് ഞാൻ തെളിയിച്ചു 0 ഒരു യൂണിറ്റ് അല്ലെന്നും ഞാൻ പറയണം പക്ഷേ അത് ശരിയാണ് 0 എന്നത് ഒരു യൂണിറ്റ് അല്ല കാരണം 0 ഒരു യൂണിറ്റ് അല്ല എന്നതിന്റെ അർത്ഥമെന്താണ് 0 ന് ഒരു ഗുണിത വിപരീതം ഇല്ലെന്ന് ഞാൻ അവകാശപ്പെടുന്നു കാരണം ഏതെങ്കിലും റാഷണൽ സംഖ്യ ഉപയോഗിച്ച് 0 നെ ഗുണിച്ചാൽ നിങ്ങൾക്ക് 0 ലഭിക്കും നിങ്ങൾക്ക് ഒരിക്കലും 1 ലഭിക്കില്ല 0 ന് തീർച്ചയായും ഒരു ഗുണിത വിപരീതം ഉണ്ടാകരുത് ഏതെങ്കിലും റിങ്ങിൽ 0 ഒരു യൂണിറ്റായിരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല സംഭവിക്കാവുന്ന അടുത്ത മികച്ചത് എന്താണ് പൂജ്യമല്ലാത്ത ഓരോ ഘടകങ്ങളും ഒരു യൂണിറ്റ് ആകാം അതിനാൽ അത് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഒരു ഫീൽഡ് എന്ന് വിളിക്കുന്നു ഫീൽഡുകളുടെ ഉദാഹരണങ്ങൾ Q ഒരു ഉദാഹരണം ആണ് അതുപോലെ R ഒരു ഫീൽഡ് ആണ് C ഒരു ഫീൽഡ് ആണ് Q R C ഫീൽഡുകൾ ആണ് Z എന്നത് ഒരു ഫീൽഡ് അല്ല Z ഒരു ഫീൽഡ് അല്ലെന്നും ഉദാഹരണം വ്യക്തമാക്കുന്നു കാരണം Z ന്റെ പൂജ്യമല്ലാത്ത എലെമെന്റ്സ് ഗുണിത വിപരീതം ഇല്ല 2 ന് ഗുണിത വിപരീതം ഇല്ല ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തട്ടെ ഈ വീഡിയോയിൽ നമ്മൾ റിങ്ങുകളുടെ കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കുകയും യൂണിറ്റുകൾ എന്ന് വിളിക്കുന്ന പ്രധാനപ്പെട്ട ഒബ്ജക്റ്റുകൾ നിർവ്വചിക്കുകയും ചെയ്തു കൂടാതെ ഫീൽഡുകളെക്കുറിച്ച് സംസാരിച്ചു അവ പ്രത്യേക തരം റിങ്ങുകളാണ് കൂടാതെ ഫീൽഡുകളുടെ ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിച്ചു അതിനാൽ അടുത്ത വീഡിയോയിൽ പോളിനോമിയൽ റിംഗ്സ് എന്ന് വിളിക്കപ്പെടുന്ന റിങ്ങുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസുകളിലൊന്ന് നമ്മൾ പരിഗണിക്കും